ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ I എല്ലാവർക്കും നമസ്ക്കാരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെ കുറിച്ചുള്ള മൊഡ്യൂൾ നമ്പർ 29 ലാണ് അവസാന ക്ലാസുകളിൽ ത്രിമാന വസ്തുക്കളെയും അവയുടെ പ്രൊജക്ഷനുകളെയും ഊഹിക്കാം നമുക്ക് ആ രീതിയിൽ ഒരു വസ്തു ഉണ്ട് ഈ രീതിയിൽ ഒരു ചെരിവ് ഉണ്ട് രണ്ട് ഭാഗങ്ങൾ പോലെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം ഒരു ത്രികോണാകൃതിയിലുള്ള ഭാഗം ഈ ത്രികോണാകൃതിയിലുള്ള ഭാഗം ഒരു തറയും വീണ്ടും മറ്റൊരു വസ്തുവും ചേർന്ന തരത്തിലുള്ള മറ്റൊരു ചതുരാകൃതിയിലുള്ള ഭാഗവുമായി ഘടിപ്പിച്ചിരിക്കുന്നു ഇതാണ് നല്കിയിരിക്കുന്ന ഫ്രന്റ് വ്യൂ അതായിരിക്കും അതിനാൽ ഈ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ ടോപ്പ് വ്യൂ എല്ലാം എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നമുക്ക് ഊഹിക്കാം നമുക്ക് ഫ്രന്റ് വ്യൂ നമുക്ക് കാണാനാകും കൂടാതെ ഇത് കാണാനാകുന്ന ഒരു സ്ഥാനത്തായിരിക്കും നമ്മൾ ഉണ്ടാവുക ഈ രേഖ ഇത് ഈ മുഴുവൻ കാര്യവും നമുക്ക് കാണാനാകും അതായത് ഈ പ്ലാറ്റ്ഫോം നോക്കാം സൈഡ് വ്യൂവിനായി ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനാൽ ത്രികോണ ഭാഗം അതായിരിക്കും ഈ തിരശ്ചീന രേഖ കാണാനാകുന്ന ഒരു സ്ഥാനത്തായിരിക്കും നമ്മൾ ഈ തിരശ്ചീന രേഖ ഈ ലംബമായിട്ടുള്ളതും കാണാനാകുന്ന ഒരു സ്ഥാനത്തായിരിക്കും നമ്മൾ ഉണ്ടാവുക കൂടാതെ ഇതും ഇതാണ് നമ്മൾ നിരീക്ഷിക്കുന്ന രീതി ഈ രേഖ മുഴുവനായും അതിനോട് യോജിക്കും ഈ പുറകുവശവും ഈ രേഖയും കാണാൻ നമുക്ക് കഴിയില്ല അതിനർത്ഥം ഈ പുറകുവശത്ത് ഒരു വസ്തു ഉണ്ട് അതിനാൽ നമ്മൾ അതിനെ ഡാഷ്ഡ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ മുകളിൽ കാണാൻ പോകുന്നത് എന്താണെന്നാൽ മുകളിൽ ഈ ഭാഗം പോലെയുള്ള ഒന്ന് ഉണ്ട് അത് നമ്മൾ കാണും കൂടാതെ ഈ ഭാഗവും കാണാനാകുന്ന സ്ഥാനത്തായിരിക്കും നമ്മൾ അതിനർത്ഥം ഇത് അതിലൂടെ ഒരു ചെരിഞ്ഞ രേഖയും പോകുന്നുണ്ട് അതിനാൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു ഭാഗം കൂടി ഉണ്ട് ഈ ഭാഗവും കാണാനാകുന്ന സ്ഥാനത്തായിരിക്കും നമ്മൾ അതിനർത്ഥം ഈ ഭാഗം സ്വാഭാവികമായും ആ ഘട്ടത്തിൽ ആ രീതിയിൽ വരുന്നു ഈ മുഴുവൻ ചെരിഞ്ഞ ഭാഗവും ഇത് ഒരു പ്രൊജക്റ്റ് പോലെ കാണാനാകുന്ന ഒരു സ്ഥാനത്തായിരിക്കും നമ്മൾ തുടർന്ന് അത് ആ അടിത്തറ വരെ ഒരു നിശ്ചിത തലം വരെ പോകുന്നു ഇത് യോജിക്കേണ്ടതാണ് ഈ ഭാഗം ആ നില വരെ പൊരുത്തപ്പെടുന്നതുമാണ് അതിനാൽ ടോപ് വ്യൂവിൽ ദിശയിൽ പോകുന്നു അത് മാത്രം കാണാനാകാത്ത അവസ്ഥയിലായിരിക്കാം നമ്മൾ അതിനാൽ അവിടെ ഈ ഭാഗം ആ ഭാഗവുമായി യോജിപ്പിക്കുന്ന ഒരു രേഖ ഉണ്ടായിരിക്കണം ഈ ഭാഗം ആ ഭാഗവുമായി ചേരുന്നു വസ്തുവിന്റെ ടോപ് വ്യൂ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഈ വസ്തുവിന്റെ പ്രൊജക്ഷനുകൾ നമുക്ക് ഊഹിക്കാം അതിനാൽ ഇത് സാധാരണയായി വാതിലുകൾ വിൻഡോകൾ ചെയ്യുക അതിനാൽ അത് വസ്തുവിനെ ദൃഢീകരിക്കും ഒന്നുകിൽ അതിന്റെ മുകൾഭാഗത്തോ അല്ലെങ്കിൽ താഴ്ഭാഗത്തോ ഉദാഹരണത്തിന് ഈ വുഡൻ ബ്ലോക്കിനെ ഉപയോഗിക്കുന്നു അതിനാൽ നമുക്ക് ഇത് ഫ്രന്റ് വ്യൂവിൽ ആയിരിക്കും അതിനാൽ ഇവിടെ നമുക്ക് 60 യൂണിറ്റ്സ് നമുക്ക് കാണാനാകുന്ന ചതുരാകൃതിയിലുള്ള ഭാഗമാണിത് അവിടെ ദ്വാരങ്ങളുണ്ട് അതിനാൽ ദ്വാരങ്ങൾ ഉള്ള ഇടങ്ങൾ നമ്മൾ ഡാഷ് ചെയ്യപ്പെടുന്നതാണ് വീണ്ടും അത് അവിടെ വരെ പോകുന്നു അതിനാൽ ടോപ് വ്യൂവിൽ 50 അളവിൽ നമുക്ക് ഒരു ദീർഘചതുരം കാണാനാകും അതിനാൽ നമ്മൾ അത് കാണുകയാണെങ്കിൽ കാരണം ഇവിടെ മുതൽ ഇവിടെ വരെ 50 ആണ് അതിനാൽ 50 വരെ നമ്മൾ ഇത്തരത്തിലുള്ളത് കാണുകയും 15 അകലത്തിലുള്ള ഈ വൃത്തങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരിക്കുകയും ചെയ്യും അതിനാൽ അവിടെ ഒരു വൃത്തമുണ്ട് അവിടെ മറ്റൊരു വൃത്തവും കൂടാതെ മധ്യബിന്ദു 15 അകലത്തിൽ ആയിരിക്കണം കൂടാതെ ഈ മധ്യബിന്ദു മുതൽ ഈ അരിക് വരെ 15 ആണ് അതിനാൽ വീണ്ടും ഇവിടെ 15 എക്സ്റ്റൻഷൻ ലൈനുകൾ ഉണ്ടെന്നും നമുക്ക് കാണാനാകും ഇതാണ് ആർക്ക് നിർമ്മിക്കാൻ കഴിയുന്ന രീതി ഇതാണ് അല്പം സങ്കീർണ്ണമായ ഈ വസ്തു നമുക്ക് നോക്കാം ഈ ത്രിമാന വസ്തു അളവുകൾ നൽകിയാൽ നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുവാണ് ഇത് അതിനാൽ നമ്മൾ അത് നോക്കുകയാണെങ്കിൽ ഇത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കൂടാതെ ഫ്രണ്ട് വ്യൂവിന് അടുത്തായി നമുക്ക് ഒരു സൈഡ് വ്യൂ ഉണ്ടാകും ഇപ്പോൾ ഈ സൈഡ് വ്യൂ ആയിരിക്കണം നമുക്ക് ഇത് കൂടുതൽ ശ്രദ്ധാപൂർവ്വം നോക്കാം വസ്തുവിന്റെ ഫ്രന്റ് വ്യൂ ആയിരിക്കണം നമുക്ക് ഇത്തരത്തിലുള്ള കട്ട് മധ്യത്തിലാകാം അത് അരികുകളിലും ആകാം സാധാരണയായി നമ്മൾ മധ്യഭാഗത്തായി കാണിക്കുന്നു 1 എന്നാൽ അംഗീകൃതമായ സമ്പ്രദായം മധ്യഭാഗത്ത് കട്ട് സെക്ഷൻ വിഭാഗമാണെന്ന് സൂചിപ്പിക്കുന്നു സങ്കീർണ്ണമായ ആന്തരിക ഭാഗങ്ങൾ ദൃശ്യവൽക്കരിക്കുക എന്നതാണ് ഈ കട്ട് സെക്ഷൻസ് തുരന്നെടുത്തത് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല അത്തരം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് സാധാരണയായി ആളുകൾക്ക് ആ കട്ട് ഉണ്ടെങ്കിൽ ഈ ഭാഗം മുഴുവനും ആ രീതിയിൽ വരുന്നു ഇവിടെ ഒരു ദ്വാരം ഉണ്ട് അത് താഴെ വരെ പോകുന്നു അതിനാൽ നമുക്ക് ഈ അധിക ഭാഗങ്ങളുണ്ട് ഈ വൃത്താകൃതിയിലുള്ള ഭാഗങ്ങൾ നമുക്ക് ഒരു ദ്വാരം പോലെയാണ് ഉള്ളത് അതുപോലെ ഈ ഭാഗത്ത് ആ ദിശയിൽ വരുന്ന ഒരു വക്രതയുണ്ട് അതിനാൽ ആ ഭാഗം വളഞ്ഞുകൊണ്ട് മുകളിലേക്ക് വരെപോകുന്നു അതിനാൽ നമുക്ക് ആ ഭാഗം ലഭിച്ചു കൂടാതെ ഈ ചെറിയ യു ഈ അർദ്ധവൃത്തവും ആ ദിശയിൽ ലഭിക്കും ഫ്രണ്ട് വ്യൂ നിർമ്മിക്കേണ്ടതില്ല ഈ ആവശ്യത്തിനായി നമുക്ക് ഈ പൂർണ്ണമായ ഒന്നുണ്ട് ഇത് ഈ പൂർണ്ണമായതും നമുക്ക് ദൃശ്യവൽക്കരിക്കാൻ കഴിയും കൂടാതെ ആന്തരികമായി അവിടെ ഒരു ദീർഘസുഷിരം പോലെയുള്ള ഒന്ന് ഉണ്ടായിരിക്കാം അതാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻ ഉണ്ടാവാൻ കാരണം അവിടെ ഒന്നുമില്ലെങ്കിൽ അത് നേരിട്ട് ആ രീതിയിൽ ബന്ധിപ്പിക്കപ്പെടുന്നതാണ് അവിടെ ചതുരാകൃതിയിലുള്ള ബ്ലോക്കുകൾ

അതുപോലെ നമ്മൾ സൈഡ് വ്യൂ ചെയ്യുന്ന നിങ്ങളുടെ കൈയുടെ വലതുഭാഗത്ത് നിന്നാണ് നമ്മൾ നോക്കുന്നത് അതിനാൽ ഈ പ്ലെയിനിൽ നമുക്ക് ആ ദീർഘസുഷിരം ആ രീതിയിൽ കാണാനാകും അതിനാൽ ഇതാണ് തന്നിരിക്കുന്ന ത്രിമാനവസ്തുക്കളുടെ പ്രൊജക്ഷനുകൾ